അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് I ലെ പ്രഭാഷണങ്ങളിലേക്ക് തിരികെ സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 30 ആണ് ഡബിൾ ഇന്റഗ്രലുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരും ഇന്ന് പ്രത്യേകിച്ചും ഡബിൾ ഇന്റഗ്രലിന്റെ ചില ആപ്ലിക്കേഷനുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ പ്രശ്നം നമ്പർ 1 ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് പരാബോള ഉം എന്ന വരിയും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ വിസ്തീർണ്ണം കണ്ടെത്തുക അതിനാൽ നമുക്ക് ഇവിടെ രണ്ട് വക്രങ്ങൾ ഉണ്ട് ഒന്ന് പരാബോള മറ്റൊന്ന് നേർരേഖ അതിനാൽ ഈ രണ്ട് വക്രങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഇതിനകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ആശയം ഈ മേഖലയെ അപേക്ഷിച്ച് ഫംഗ്ഷൻ ഒന്നോ സ്ഥിരമായ ഫംഗ്ഷനോ 1 ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും തുടർന്ന് ഈ രണ്ട് വക്രതകൾ ബൌണ്ടഡായിരിക്കുന്ന പ്രദേശത്തിന്റെ വിസ്തീർണ്ണം നമുക്ക് നേടാനാകും അതിനാൽ കൃത്യമായി നമുക്ക് ഈ രണ്ട് വക്രതകൾ ഉണ്ട് ഈ വരി x ന് തുല്യമാണ് y ഈ പരാബോളയുടെ ന് തുല്യമാണ് എന്നിട്ട് നമുക്ക് ഈ പോയിന്റിന്റെ ഇന്റർസെക്ഷൻ ലഭിക്കണം അത് ഈ കേസിൽ വളരെ ലളിതമാണ് അതിനാൽ y എന്നത് ന് തുല്യവും y x ന് തുല്യവുമാണ് ഈ രണ്ട് വക്രതകൾ അതിനാൽ y എന്നത് x ന് തുല്യമാണ് അത് ന് തുല്യമാണ് ഇത് നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് നൽകും അതിനാൽ 0 ന് തുല്യമാണ് അതിനാൽ നമുക്ക് x 0 ന് തുല്യമാണ് x ഈ രണ്ട് പോയിന്റുകളിലും 1 ന് തുല്യവും yന് കറസ്പോണ്ടിങ്മാണ് അതിനാൽ ഈ പോയിന്റിൽ x എന്നത് 0 ന് തുല്യമാണ് ഇവിടെ നമുക്ക് x 0 ഉം 0 ഉം ഉണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു പോയിന്റുണ്ട് x 0 ഉം x 1 ഉം y 1 ഉം ആണ് അതിനാൽ ഇവ രണ്ട് പോയിന്റുകളാണ് ഇപ്പോൾ ഈ രണ്ട് വക്രതകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിന്റെ വിസ്തീർണ്ണം ഞങ്ങൾ കണക്കാക്കും അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ലിമിറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ ഇന്റഗ്രലുകളുടെ ലിമിറ്റുകൾ ഇവിടെ നമ്മൾ ആദ്യം x ന്റെ ദിശയിലേക്കും y ന്റെ ദിശയിലേക്കും പോകുമോ എന്നത് പ്രശ്നമല്ല അതിനാൽ ഇപ്പോൾ നമ്മൾ ആദ്യം y യുടെ ദിശയിലും പിന്നീട് x ന്റെ ദിശയിലും എടുക്കും അതിനാൽ y ന്റെ ദിശയിൽ നമുക്ക് ഈ വക്രതയിൽ നിന്ന് ആ വക്രതയിലേക്ക് ലിമിറ്റുകളുണ്ട് കൂടാതെ ഈ വരികൾ x മുതൽ 0 വരെ തുല്യമായിരിക്കും ഈ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും x 1 ന് തുല്യമാണ് അതിനാൽ ഇവിടെ ഈ വക്രം y എന്നത് ന് തുല്യവും മുകളിലുള്ള y എന്നത് x ന് തുല്യവുമാണ് അതിനാൽ y ന്റെ ദിശയിൽ നമ്മൾ ഈ വക്രത്തിലൂടെ പ്രവേശിക്കുന്നത് x എന്നത് y ന് തുല്യമാണ് ന് തുല്യമാണ് ഈ പ്രദേശം ഉപേക്ഷിക്കുന്നു ഈ വക്രത പ്രകാരം y നേർരേഖയ്ക്ക് തുല്യമാണ് അതിനാൽ ഇവിടെ y ന്റെ ലിമിറ്റുകൾ y മുതൽ yx വരെയാണ് അത്തരം വരികൾ x ൽ നിന്ന് നീങ്ങുന്നത് 0 മുതൽ x വരെ 1 ന് തുല്യമാണ് അതിനാൽ ഈ രണ്ട് വക്രതകളാൽ ബൌണ്ടഡായ പ്രദേശത്തിന്റെ വിസ്തീർണ്ണം ഈ ഇന്റഗ്രൽ നമുക്ക് നൽകും അതിനാൽ ഈ ഇന്റഗ്രൽ ഇപ്പോൾ ഞങ്ങൾ കണക്കുകൂട്ടേണ്ടതുണ്ട് ഇത് ഈ രണ്ട് വക്രതകളാൽ ബൌണ്ടഡായ പ്രദേശത്തിന്റെ വിസ്തീർണ്ണം നൽകും അതിനാൽ ഇവിടെ ബാഹ്യമായത് 0 മുതൽ 1 വരെയും ആന്തരികമായത് y യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമുക്ക് y ലഭിക്കും തുടർന്ന് മുതൽ x വരെ ലിമിറ്റ് ലഭിക്കും തുടർന്ന് നമുക്ക് ഇവിടെ ഉണ്ട് അതിനാൽ ഇത് 0 മുതൽ 1 വരെയും y അപ്പർ ലിമിറ്റ് x ഉം താഴ്ന്ന ലിമിറ്റ് ഉം ആയിരിക്കും അതിനാൽ തുടർന്ന് നമുക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് സിംഗിൾ ഇന്റഗ്രൽ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇവിടെ നമുക്ക് എന്നിവ ലഭിക്കും ലിമിറ്റ് 0 മുതൽ 1 വരെ ആയിരിക്കും അതിനാൽ ഈ അപ്പർ ലിമിറ്റ് ഇവിടെ മാറ്റിസ്ഥാപിച്ചാൽ താഴ്ന്ന ലിമിറ്റ് എങ്ങനെയാണെങ്കിലും 0 ആകും അതിനാൽ ഒരു ലിമിറ്റ് നിശ്ചയിക്കുമ്പോൾ നമുക്ക് ഉണ്ട് അതിനാൽ ഇത് നമുക്ക് നൽകും ഈ പരാബോളയുടെ അതിർത്തിയായ പ്രദേശത്തിന്റെ വിസ്തീർണ്ണവും y എന്ന നേർരേഖ x ന് തുല്യവുമാണ് അതിനാൽ ഈ ഇന്റഗ്രലിന്റെ ഉത്തരം അതാണ്

അതിനാൽ കുറച്ചുകൂടി സങ്കീർണ്ണമായ മറ്റൊരു ഉദാഹരണം ഞങ്ങൾ എടുക്കും ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് പരാബോള ഉം എന്ന വരിയും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ വിസ്തീർണ്ണം കണ്ടെത്തുക അതിനാൽ ഇവിടെ yx എന്നതിനുപകരം ഉദാഹരണത്തിന് y ലൈൻ അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ഒരു പരാബോളയുണ്ട് തുടർന്ന് yx ന് പകരം നമുക്ക് y ഉള്ളത് ന് തുല്യമാണ് അതിനാൽ ഈ y എന്നത് ലൈനിന് തുല്യമാണ് അതിനാൽ x 0 ആയിരിക്കുമ്പോൾ ഇവിടെ ഈ ഇന്റർസെപ്റ്റ് y മൂല്യം 2 ഉം x 1 ആയിരിക്കുമ്പോൾ ഇത് 1 ഉം ആണ് അതിനാൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് വീണ്ടും അതിനാൽ y ന് തുല്യവും y ന് തുല്യവുമാണ് അതിനാൽ എന്ന സമവാക്യം ന് തുല്യമാണ് അല്ലെങ്കിൽ 0 ന് തുല്യമാണ് അതിനാൽ ഇത് നമുക്ക് ഉം ഇത് 0 ന് തുല്യവുമാണ് അതിനാൽ x 1 ന് തുല്യവും x 2 ന് തുല്യവുമാണ് അതിനാൽ ഈ രണ്ട് വക്രതകളും പരസ്പരം കൂടിച്ചേരുന്നിടത്ത് നമുക്ക് ഇപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ ലഭിക്കും അതിനാൽ ഒന്ന് കൃത്യമായി ഇത് മറ്റൊന്ന് ഇവിടെ ഈ പോയിന്റിൽ അതിനാൽ ഇവിടെ x 2 ആകുമ്പോൾ y 4 ആയിരിക്കും അതിനാൽ ഈ പോയിന്റാണ് തുടർന്ന് 1 ഉം 1 ഉം ഇവിടെയാണ് ഈ രണ്ട് വക്രതകളാൽ ബൌണ്ടഡായയിരിക്കുന്ന ഈ വിസ്തീർണ്ണം ഞങ്ങൾ കണക്കാക്കുന്നു Y യുടെ ദിശയിൽ നമ്മൾ എല്ലായ്പ്പോഴും ഈ വക്രത്തിൽ നിന്ന് ഈ വരിയിലേക്കും x ന്റെ ദിശയിലേക്കും നീങ്ങുന്നുവെന്ന അതേ ആശയം അതിനാൽ ഇത് y ന്റെ ദിശയിലാണ് ഇത് എല്ലായ്പ്പോഴും ഈ വക്രത്തിൽ നിന്ന് y മുതൽ y വരെ x 2 ന് തുല്യമാണ് തുടർന്ന് ഈ വരി ഈ x ൽ നിന്ന് നീങ്ങും 1 മുതൽ x വരെ 2 ന് തുല്യമാണ് അതിനാൽ ഈ രണ്ട് വക്രതകളാൽ ബൌണ്ടഡായയിരിക്കുന്ന ഈ വിസ്തീർണ്ണം ഞങ്ങൾ ഈ ഇന്റഗ്രൽ കണക്കുകൂട്ടും ഇന്റഗ്രാന്റ് 1 ആയിരിക്കും തുടർന്ന് നമുക്ക് dy dx ഉണ്ട് Y യുമായി ബന്ധപ്പെട്ട് ആന്തരിക ഇന്റഗ്രൽ y ന്റെ ലിമിറ്റുകൾ ഈ y ൽ നിന്ന് മുതൽ y ന് തുല്യമാണ് ന് തുല്യമാണ് പരാബോള ഈ പാരബോളയിൽ നിന്ന് ഈ വരിയിലേക്കും ഈ പാരബോളയിൽ നിന്ന് ആ വരിയിലേക്കും ഇപ്പോൾ x ന് ചർച്ച ചെയ്തതുപോലെ 1 മുതൽ 2 വരെ എടുക്കും അതിനാൽ നമുക്ക് എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും തുടർന്ന് ഈ രണ്ട് വളവുകളും ഉൾക്കൊള്ളുന്ന പ്രദേശം നമുക്ക് ലഭിക്കും

അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഈ വിസ്തീർണ്ണത്തിന് ഒരു ഉദാഹരണം കൂടി എടുക്കും ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് വക്രതകളാൽ ബൌണ്ടഡായ വിസ്തീർണ്ണം നിർണ്ണയിക്കുക അതിനാൽ എന്നീ 3 കർവുകൾ ഉണ്ട് ഇവ x അക്ഷത്തിന് സമാന്തരമാണ് അതിനാൽ ഈ എല്ലാ വക്രതകളുടെയും ഗ്രാഫുകൾ നോക്കാം അതിനാൽ ഇവിടെ y 4 എന്നത് ഈ നേർരേഖയാണ് നമുക്ക് ഈ പരാബോള വീണ്ടും ഉണ്ട് y ന് തുല്യമാണ് തുടർന്ന് നമുക്ക് xy 2 അതിനാൽ ഇവിടെ x 0 ലേക്ക് അടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും x പോകുമ്പോൾ ഈ y 0 ലേക്ക് പോകുകയും x ലേക്കും പോകുന്നു അതിനാൽ നമുക്ക് ഇവിടെ ഈ വക്രം xy 2 ഉണ്ട് ഇവിടെ നമുക്ക് y എന്നത് ന് തുല്യവും ഈ നേർരേഖ y 4 മാണ് അതിനാൽ ഈ മൂന്ന് വളവുകളും ഈ മൂന്ന് വക്രതകളുടെ ബൌണ്ടഡായയിരിക്കുന്ന വിസ്തീർണ്ണവും കൃത്യമായി ഇവിടെ ആയിരിക്കും അതിനാൽ ഡബിൾ ഇന്റഗ്രലിന്റെ സഹായത്തോടെ ഞങ്ങൾ ഇപ്പോൾ കണക്കുകൂട്ടാൻ പോകുന്ന മേഖലയാണിത് അതിനാൽ ഇതിൽ ആദ്യം x അക്ഷത്തിലൂടെയോ പിന്നീട് y അക്ഷത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെയോ പോകാമെങ്കിലും നമുക്ക് സാധ്യതയുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം x ആക്സിസ് കാണാം അതിനാൽ നമ്മൾ x ന്റെ ദിശയിൽ ആദ്യം ഇന്റഗ്രൽ എടുത്താൽ എന്ത് സംഭവിക്കും നമ്മൾ വക്രം xy 2 ൽ നിന്ന് y എന്ന വക്രത്തിലേ ക്ക്പോകുന്നു ഈ ദിശയിൽ y ൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് പോകും ഇത് ഇപ്പോൾ നമ്മൾ കണക്കുകൂട്ടും ഇവിടെ ഇന്റർസെക്ഷന് പോയിന്റ് എന്താണ് y ഇതിനകം നൽകിയിട്ടുള്ള 4 ന് തുല്യമാണ് അതിനാൽ നമ്മൾ ആദ്യം x ന്റെ ദിശയിൽ ശരിയാക്കുകയാണെങ്കിൽ പ്രശ്നം ഈ വക്രത്തിൽ നിന്ന് എല്ലായ്പ്പോഴും വരിയിലേക്ക് പോകും പക്ഷേ ഈ പോയിന്റ് വരെ ഇതിനടുത്തായി നമ്മൾ ഈ പരാബോളയിൽ y നിന്ന് ആ വരിയിലേക്ക് പോകുന്നു അതിനാൽ ഈ ഇന്റഗ്രലിനെ രണ്ട് മേഖലകളായി വിഭജിക്കണം ഒന്ന് ഇതും മറ്റൊന്ന് ഇതും ആയിരിക്കും അതിനാൽ ഇതിനുപകരം x നെ സംബന്ധിച്ച് ആദ്യം എടുക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും കാരണം ആ സാഹചര്യത്തിൽ ഡൊമെയ്ൻ വിഭജിക്കേണ്ടതില്ല കാരണം ഈ വക്രത്തിൽ നിന്ന് ഈ വക്രത്തിലേക്ക് ഞങ്ങൾ എല്ലായ്പ്പോഴും പോകും ഒപ്പം y ന്റെ ദിശയിലും ഈ പോയിന്റിൽനിന്ന് ആ പോയിന്റിലേക്ക് അതിനാൽ ഈ xy 2 ന്റെ ഇന്റർസെക്ഷൻന്റെ ഈ പോയിന്റ് ഞങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ xy 2 ന് തുല്യമാണ് മറ്റൊന്ന് y എന്നത് ന് തുല്യമാണ് അതിനാൽ ഇവിടെ നിന്ന് y ന്റെ മൂല്യം ഞങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നു അതിന്റെ ന് തുല്യമാണ് ഇവിടെ നിന്ന് നമുക്ക് x വെറും 2 ആയിരിക്കും അതിനാൽ ഇവിടെ ഈ പോയിന്റ് കൃത്യമായി x 2 ന് തുല്യമാണ് അതിനാൽ ഇത് x 2 ന് തുല്യവും y ഉം ആണ് അതിനർത്ഥം 1 അതിനാൽ ഇവിടെ y 1 ആണ് അതിനാൽ ഇവിടെ ഈ പോയിന്റ് y 1 ഉം ആ വരി y 4 ഉം ആണ് അതിനാൽ y ന്റെ ദിശയിൽ നമ്മൾ 1 മുതൽ 4 വരെ പോകും x ന്റെ ദിശയിൽ ഈ xy 2 മുതൽ y വരെ ന് തുല്യമാണ് അതിനാൽ നമുക്ക് ഈ ഇന്റഗ്രൽ എഴുതാം അതിനാൽ ആന്തരികം x നെ അടിസ്ഥാനമാക്കിയും ബാഹ്യം y നെ അടിസ്ഥാനമാക്കിയും അതിനാൽ ആന്തരികത്തിനായി ഞങ്ങൾ ഈ xy 2 ൽ നിന്ന് നീങ്ങുന്നു അതായത് x ആണ് അവയുടെ അപ്പർ ബൌണ്ടറി 4 y ന് തുല്യമാണ് അതായത് x ആണ് അതിനാൽ ഇവിടെ y ന് ഞങ്ങൾ 1 മുതൽ 4 വരെ പോകും അതിനാൽ ഈ മൂന്ന് വക്രതകളാൽ ബൌണ്ടഡായിരിക്കുന്ന ഏരിയയാണ് നമുക്ക് ഈ ഇന്റഗ്രൽ കണക്കുകൂട്ടാൻ കഴിയും അതിനാൽ നമുക്ക് അത് ചെയ്യാം അതിനാൽ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്ന ഇന്റഗ്രലാണിത് അതിനാൽ ആന്തരികമായ ഒന്നിനായി ബാഹ്യമായത് y 1 മുതൽ 4 വരെ തുല്യമാണെന്ന് ഞങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു ആന്തരികമായത് x നെ അടിസ്ഥാനമാക്കിയും

അതിനാൽ ഈ 3 ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ വക്രതകളാൽ ബൌണ്ടഡായിരിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് വക്രതകൾ അല്ലെങ്കിൽ മൂന്ന് വക്രതകൾ കണക്കാക്കി അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് മൂന്ന് വക്രതകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് അത് സോളിഡിന്റെ വ്യാപ്തമാണ് ഡബിൾ ഇന്റഗ്രലുകൾ ഉപയോഗിച്ച് x ആക്സിസ് എന്നിവയാൽ ചുറ്റപ്പെട്ട പ്രദേശത്തിന് മുകളിലുള്ള z xy ന് താഴെയുള്ള ഖരരൂപത്തിന്റെ വ്യാപ്തം കണ്ടെത്തുക അതിനാൽ ഇവിടെ ഡബിൾ ഇന്റഗ്രലുകൾ ഉപയോഗിച്ച് ഈ z ന് താഴെയുള്ള സോളിഡിന്റെ വ്യാപ്തം xy ന് തുല്യമാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ z പരാബോളയാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിന് മുകളിലുള്ള xy ഉപരിതലത്തിന് തുല്യമാണ് വീണ്ടും y നും x 1 ന് തുല്യവും x 2 ന് തുല്യവുമാണ് അതിനാൽ ഇവ വീണ്ടും മൂന്ന് വളവുകളാണ് മുന്നോട്ടുള്ളത് x അക്ഷമാണ് അതിനാൽ ഡൊമെയ്നിലെ പ്രദേശം എന്താണെന്ന് ആദ്യം നമ്മൾ കാണണം തുടർന്ന് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഉപരിതലമുണ്ട് z എന്നത് xy ന് തുല്യമാണ് അതിനാൽ ഉപരിതലത്തിന് താഴെയും xy തലം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിന് മുകളിലുമുള്ള വോളിയം കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ ആദ്യം പതിവുപോലെ പ്രദേശം വരയ്ക്കണം അതിനാൽ നമുക്ക് പരാബോളയും തുടർന്ന് ഈ മൂന്ന് വരികളും ഉണ്ട് അതിനാൽ നമുക്ക് ഈ പരാബോളയുണ്ട് അത് ഇപ്പോൾ മറ്റ് ദിശയായ y ന് തുല്യമാണ് അതിനാൽ x 0 ആകുമ്പോൾ y 4 ആണ് അതിനാൽ ശീർഷകം ഇവിടെയുണ്ട് അതിനാൽ ഈ y എന്നത് ന് തുല്യമാണ് അത് പരാബോളയാണ് നമുക്ക് x എന്നത് ഒന്നിന് തുല്യമാണ് ഇത് x1 എന്ന വരി കൂടാതെ നമുക്ക് x 2 എന്ന വരി അതിനാൽ ഈ വരിയാണ് ഇവിടെ നമുക്ക് x അക്ഷം അതിനാൽ ഈ നാല് വക്രതകളുടെയും ബൌണ്ടറി പ്രദേശം ഇതാണ് അതിനാൽ ഈ y തുല്യമാണെങ്കിലും നാല് വക്രതകളാൽ ബൌണ്ടഡായിരിക്കുന്ന പ്രദേശമാണിത് അതിനാൽ x2 ഇവിടെ ഒരു പങ്കും വഹിക്കുന്നില്ല കാരണം ഇത് ഈ പരാബോളയുടെയും ഈ വരിയുടെയും വിഭജന പോയിന്റിലൂടെ കൃത്യമായി കടന്നുപോകുന്നു അതിനാൽ ഞങ്ങൾ നീക്കംചെയ്താലും ഈ x 2 ന് തുല്യമാണ് ഇത് അടച്ചിരിക്കുന്ന പ്രദേശത്തിന് സമാനമായിരിക്കും അതിനാൽ ഇപ്പോൾ ഈ പോയിന്റും ഇവിടെ നേടേണ്ടതുണ്ട് അതിനാൽ x 1 ആയിരിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ് അതിനാൽ x 1 ആയിരിക്കുമ്പോൾ y 3 ആണ് അതിനാൽ ഈ x 1 ഉം പിന്നീട് y 3 ഉം ആയിരിക്കും ഈ ഘട്ടത്തിൽ ന് തുല്യവും ഈ പോയിന്റ് ഇവിടെ x 2 ഉം y 0 ഉം ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ലിമിറ്റുകൾ നൽകേണ്ടതുണ്ട് കൂടാതെ പ്രവർത്തനം xy ആയിരിക്കും അതിനാൽ സ്വയമേവ ഈ xy ഇന്റഗ്രാൻഡുമായി ഈ ഡബിൾ ഇന്റഗ്രൽ നമുക്ക് ഉപരിതലത്തിനു താഴെയും ഈ xy തലത്തിനു മുകളിലുമുള്ള ഖരത്തിന്റെ വ്യാപ്തം നൽകും അതിനാൽ ഈ ലിമിറ്റുകൾ വീണ്ടും ഇവിടെ ലഭിക്കാൻ നമുക്ക് x ന്റെ ദിശയിലേക്ക് ആദ്യം പോകാനുള്ള രണ്ട് സാധ്യതകളും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യം y ന്റെ ദിശയിലേക്ക് പോകാം അതിനാൽ നമുക്ക് x ന്റെ ദിശയിലേക്ക് പോകാം തുടർന്ന് ആന്തരിക ഇന്റഗ്രലിനായി ഈ വരി ഇതിൽ നിന്ന് ആ സ്ഥാനത്തേക്ക് നീങ്ങും അതിനാൽ dx dy എന്നിവയ്ക്ക് പുറം ഒന്നായിരിക്കും ഇപ്പോൾ ഇന്റഗ്രന്റ് xy ആയിരിക്കും കാരണം xy എന്നതിനുപകരം ഇത് ഇട്ടാൽ നമുക്ക് സോളിഡ് ലഭിക്കാൻ പോകുന്നു ഈ പ്രദേശത്തിന്റെ വിസ്തീർണ്ണം നമുക്ക് ലഭിക്കും അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ x ന്റെ ലിമിറ്റുകൾക്കായി നമ്മൾ ഇപ്പോൾ x ൽ നിന്ന് 1 ന് തുല്യമാണ് ഇത് x എന്ന വരി 1 ന് തുല്യമാണ് അതിനാൽ എല്ലായ്പ്പോഴും നമ്മൾ x ൽ നിന്ന് ഡൊമെയ്നിലേക്ക് പ്രവേശിക്കുന്നത് x ൽ നിന്ന് 1 നും എക്സിറ്റ് പോയിന്റിനും തുല്യമാണ് ഈ പരാബോള y ന് തുല്യമാണോ അതോ അവിടെ നിന്ന് നമുക്ക് ഈ y ന് തുല്യമാണ് അതിനാൽ x ന് തുല്യമാണെന്നും നമുക്ക് എഴുതാം അതിനാൽ ആന്തരിക x നായി നമ്മൾ 1 മുതൽ വരെയും പുറം y നും നീങ്ങുന്നു ഈ വരിയിൽ നിന്ന് ആ വരിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു അതിനർത്ഥം y എന്നത് 0 മുതൽ y വരെ 3 ന് തുല്യമാണ് അതിനാൽ ഇത് ഇപ്പോൾ നമ്മൾ വിലയിരുത്താൻ ആഗ്രഹിക്കുന്ന ഇന്റഗ്രലാണ് ഇത് താഴെയുള്ള ഖരത്തിന്റെ വ്യാപ്തം നമുക്ക് നൽകും ഉപരിതലം z എന്നത് xy ന് തുല്യമാണ് ഇത് ഈ ഇന്റഗ്രലിന്റെ ഇന്റഗ്രന്റാണ് അതിനാൽ ഇപ്പോൾ ഈ ഇന്റഗ്രൽ വിലയിരുത്താം അതിനാൽ ഇവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ട ലിമിറ്റ് അതിനാൽ x 1 മുതൽ ഉം y 0 മുതൽ 3 വരെയുമാണ് ഇത് ആദ്യം x നെ അടിസ്ഥാനമാക്കി ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ x നെ സംബന്ധിച്ചുള്ള ഈ വോളിയം ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും അതായത് ഇത് ആയിരിക്കും അതിനാൽ ഇത് y ഉം 2 ഉം ആണ് നമുക്ക് ഉണ്ട് ഈ ലിമിറ്റുകൾ 1 മുതൽ വരെയും ബാഹ്യ ഇന്റഗ്രൽ y ഉം ആണ് അതിനാൽ ഇത് 0 മുതൽ 3 വരെയും ഉം ആണ് അതിനാൽ ഇവിടെ 0 മുതൽ 3 വരെയുള്ള അതിനാൽ ഇവിടെ ഇത് 3 y ആണ് അതിനാൽ പുറത്ത് തുടർന്ന് യും ഇന്റഗ്രന്റ് യുമാണ് അതിനാൽ ഞങ്ങൾക്ക് യും ഇന്റഗ്രൽ y 0 മുതൽ 3 വരെയും ഉണ്ട് ഈ വെക്റ്റർ അവിടെയുണ്ട് ഇന്റഗ്രൽ 3 y അതിനാൽ ലിമിറ്റ് 0 മുതൽ 3 വരെയാണ് അതിനാൽ മുകളിലത്തെയും 3 താഴത്തെയും 0 ത്തിൽനിന്ന് അകലെയുമായിരിക്കും അതിനാൽ ഉം ഈ ഉം ഇവിടെ 9 3 ഉം 27 ഉം ആയിരിക്കും അതിനാൽ ഇവിടെ തുടർന്ന് 9 അതിനാൽ ഇത് ഉം ഉം ഈ മൈനസ് 9 ഉം ആണ് അതിനാൽ ഇത് 18 ആണ് തുടർന്ന് ഞങ്ങൾക്ക് അവിടെ 27 ഉണ്ട് അതിനാൽ നമുക്ക് 9 ലഭിക്കുന്നു ഇത് 4 ആകും അതിനാൽ ഉപരിതലത്തിന്റെ y ന് താഴെയുള്ള ഈ വോള്യത്തിന്റെ മൂല്യം xy ന് തുല്യവും പരാബോളയ്ക്കും ഈ മൂന്ന് വരികൾക്കും അടുത്തുള്ള പ്രദേശത്തിന് മുകളിലുമാണ് അതിനാൽ ഈ ഇന്റഗ്രലിന്റെ ഉത്തരം ആണ് മറ്റൊരു ഉദാഹരണം ചർച്ചചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അവിടെ xy തലം ഉള്ള ഖരത്തിന്റെ വ്യാപ്തം വീണ്ടും കണക്കുകൂട്ടും അത് പരാബോളയാൽ ബൌണ്ടഡായിരിക്കുന്നു അതിനാൽ ഇത് പരാബോളയല്ല അതിനാൽ ഇവിടെ വക്രതകളാൽ ബൌണ്ടഡായിരിക്കുന്നു xy 1 ന് തുല്യമാണ് y x ന് തുല്യമാണ് ഈ y 0 ന് തുല്യവും y 8 ന് തുല്യവുമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ വീണ്ടും ഈ വക്രതകൾ വരയ്ക്കേണ്ടതുണ്ട് അതിനാൽ അവയിൽ മൂന്നെണ്ണം വരികളാണ് തുടർന്ന് ഈ xy 16 ന് തുല്യമാണ് മുമ്പത്തെ ചിത്രത്തിൽ സമാനമായ ഗ്രാഫ് ഉപയോഗിച്ച് അതിനാൽ ഇത് ഇപ്പോൾ ലഭിക്കാൻ ഈ xy ഉള്ള സാഹചര്യം 16 ന് തുല്യമാണ് തുടർന്ന് ഇത് y എന്ന വരി x ന് തുല്യമാണ് നമുക്ക് y 0 എന്നത് 0 ന് തുല്യമാണ് നമുക്ക് x 8 ന് തുല്യമാണ് അതിനാൽ ഇവ നാല് വളവുകൾ അതിനാൽ ഞാൻ വീണ്ടും പരാമർശിക്കട്ടെ അതിനാൽ ഇത് y എന്നത് x ന് തുല്യമാണ് നമുക്ക് xy 16 ന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ x 8 ന് തുല്യവും ഈ നാല് വളവുകളാൽ ചുറ്റപ്പെട്ട പ്രദേശവുമാണ് അതിനാൽ ഈ 4 പ്രദേശം ഇവിടെയുള്ള പ്രദേശമല്ല അതിനാൽ 1 2 3 4 അതിനാൽ കൃത്യമായി ചുറ്റപ്പെട്ട ഈ പ്രദേശം ഇപ്പോൾ ഈ പ്രദേശത്തിന് മുകളിലായ ഖരത്തിന്റെ വ്യാപ്തം ഞങ്ങൾ കണക്കാക്കും താഴെ xy1ൽ ബൌണ്ടഡായിരിക്കുന്നു അതിനാൽ അതിന്റെ അടിസ്ഥാനം ഇതാണ് ഇവിടെ z തലം x ന് തുല്യമാണ് അതിനാൽ ഇതാണ് ഫങ്ഷൻ ഉപരിതലം z എന്നത് x ന് തുല്യമാണ് അതിനാൽ ഞങ്ങളുടെ ഇന്റഗ്രന്റ് ഇപ്പോൾ x ആകുന്നു അതിനാൽ നമുക്ക് ഒന്നുകിൽ ആദ്യം y യുടെ ദിശയിലേക്ക് പോകാം അല്ലെങ്കിൽ ആദ്യം x ന്റെ ദിശയിലേക്ക് പോകാം എന്ന സാഹചര്യം ഉണ്ട് എന്നാൽ രണ്ടായാലും നമുക്ക് ഡൊമെയ്ൻ തകർക്കേണ്ടിവരും കാരണം നമ്മൾ x ന്റെ ദിശയിലേക്ക് ആദ്യം പോയാലും അതിനാൽ ഇവിടെ ഈ പോയിന്റ് വരെ നമുക്ക് മറ്റൊരു സാഹചര്യമുണ്ട് അതിനുശേഷം അത് yx ൽ നിന്ന് xa വരെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം y യുടെ ദിശയിൽ സജ്ജമാക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രദേശങ്ങളും നമുക്ക് വീണ്ടും ഉണ്ട് ഇത് y ൽ നിന്നുള്ള എൻട്രികളിൽ നിന്നുള്ള 0 ആണ് ഈ വക്രം 0 ന് തുല്യമാണ് y x ന് തുല്യമാണ് തുടർന്ന് 4 മുതൽ 8 വരെ നമുക്ക് ഈ വ്യത്യസ്ത വക്രമുണ്ട് അതിനാൽ ഇവിടെ ഈ പോയിന്റ് എന്താണ് ഇന്റർസെക്ഷൻ പോയിന്റും പ്രധാനമാണ് y എന്നത് x ന് തുല്യമാണ് xy 16 ന് തുല്യവുമാണ് അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും അതിനാൽ x 4 ആണ് അതിനാൽ ഇത് കൃത്യമായി x 4 ന് തുല്യവും സ്വാഭാവികമായും ഈ y 4 ന് തുല്യവുമാണ് അതിനാൽ അതാണ് ഇവിടെ പോയിന്റ് അതിനാൽ ആദ്യം നമുക്ക് y യുടെ ദിശയിലേക്കും പിന്നീട് x ന്റെ ദിശയിലേക്കും പോകാം അതിനാൽ നമുക്ക് ഇപ്പോൾ രണ്ട് ഇന്റഗ്രലുകൾ ആവശ്യമാണ് അതിനാൽ ആദ്യം y യുടെ ദിശയിലും പിന്നീട് x ന്റെ ദിശയിലും അതിനാൽ ഇന്റഗ്രാന്റ് x ആയിരിക്കും y ന്റെ ദിശയിൽ എന്നിരുന്നാലും ഈ ആദ്യ മേഖലയുടെ റേഞ്ച് y ആയ ഈ ത്രികോണം 0 മുതൽ x വരെയുള്ള ഈ വക്രത്തിലേക്ക് പോകുന്നു തുടർന്ന് x ന് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ സ്ഥാനത്തേക്ക് നീങ്ങും അതിനർത്ഥം 0 മുതൽ 4 വരെ മറ്റൊന്ന് x 4 മുതൽ 8 വരെ വ്യത്യാസപ്പെടും ഇപ്പോൾ y ന് വീണ്ടും അതേ വക്രത y ഇവിടെ 0 ന് തുല്യമാണ് എന്നാൽ ഇപ്പോൾ അവിടെ xy 16 ന് തുല്യമാണ് അതിനാൽ ഈ y 0 മുതൽ ന് തുല്യമാണ് തുടർന്ന് നമുക്ക് വീണ്ടും dy dx എന്നിവയുണ്ട് അതിനാൽ ഈ ഇന്റഗ്രൽ ഇവിടെ നൽകിയിരിക്കുന്നത് കണക്കുകൂട്ടും അതിനാൽ ഇത് വീണ്ടും ലളിതമാണ് ഓരോ ഇന്റഗ്രലും ലളിതമാണ് ആദ്യത്തേത് 0 മുതൽ 4 വരെയാണ് തുടർന്ന് y നെ സംബന്ധിച്ച് അതിനാൽ x അതേപടി നിലനിൽക്കുന്നു ഒപ്പം y യുമായി ബന്ധപ്പെട്ട് നമുക്ക് x അവിടെ ലഭിക്കും അതിനാൽ നമുക്ക് ഇവിടെ dx ഉണ്ട് നമുക്ക് 4 മുതൽ 8 വരെ ഉണ്ട് തുടർന്ന് ഈ x ഉം വീണ്ടും y ഉം ഉണ്ട് അതിനാൽ അപ്പർ ലിമിറ്റ് നമുക്ക് ഉം മൈനസ് 0 ഉം നൽകും അതിനാൽ dx അതിനാൽ ഇവയാണ് രണ്ട് ഇന്റഗ്രലുകൾ ആദ്യത്തേത് ആണ് അതിനാൽ നമുക്ക് ഉം 0 മുതൽ 4 വരെയുള്ള ലിമിറ്റുകളും ലഭിക്കും തുടർന്ന് ഇവിടെ നമുക്ക് 16 ഉം x ഉം ഉണ്ട് അതിനാൽ 8 4 അതിനാൽ അവിടെ 4 ഇന്റഗ്രൽ മൂല്യം ലഭിക്കും അതിനാൽ ഇവിടെ ഉം പ്ലസ് 64 ഉം ആണ് അതിനാൽ ഞാൻ സാധാരണ എടുത്താൽ ഇത് 64 ആണ് ഇത് ആണ് അതിനാൽ അതിനാൽ അതിനാൽ എന്നത് ഈ തലം z ന് താഴെയുള്ള ഖരത്തിന്റെ വോള്യം x ന് തുല്യവും ആ പ്രദേശത്തിന്റെ ബൌണ്ടറി xy16 ഉം y 6 ന് തുല്യവുമാണ് y xy ന് തുല്യവും x 0 ന് തുല്യവും x 8 ന് തുല്യവുമാണ് അതിനാൽ മൂല്യം എന്നാണ്

ഇന്നത്തെ പ്രഭാഷണത്തിന്റെ അവസാന ഉദാഹരണം അതിനാൽ സോളിഡിന്റെ വോളിയം വീണ്ടും xy തലം ആയി കണക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ പരാബോളയുണ്ട് y ന് തുല്യമാണ് നമുക്ക് നേർരേഖ y 3x ന് തുല്യമാണ് മുകളിൽ z തലം x 4 ന് തുല്യമാണ് അതിനാൽ വീണ്ടും സമാനമായ പ്രശ്നം അതിനാൽ ഇന്റഗ്രന്റ് x 4 ആയിരിക്കും ഈ y ൽ നിന്ന് പ്രദേശം കണക്കാക്കും y 3x ന് തുല്യമാണ് അതിനാൽ ഇതാണ് ഇവിടെ വരികൾ അതിനാൽ വക്രത y 3x ന് തുല്യമാണ് അതിനാൽ നമുക്ക് y 3x ന് തുല്യമാണ് ഈ പരാബോള ആണ് മുമ്പ് നമ്മൾ സമാനമായ പ്രദേശങ്ങളും കണ്ടു അതിനാൽ ഇപ്പോൾ തലം താഴെയുള്ള വോളിയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയാണിത് അതിനാൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റുകൾ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനായി നമുക്ക് ഇപ്പോൾ y എന്നത് ന് തുല്യവും y ഉം ആകാം അതിനാൽ ഞാൻ അവിടെ 3x ഇടുകയും തുടർന്ന് ഇടുകയും ചെയ്യും അതിനാൽ നമുക്ക് അല്ലെങ്കിൽ x മൈനസ് 4 ഉണ്ട് അതിനാൽ 0 ന് തുല്യമാണ് അതിനാൽ x 1 ന് തുല്യവും x 4 ന് തുല്യവുമാണ് അതിനാൽ ഈ രണ്ട് പോയിന്റുകളാണ് അതിനാൽ ഇവിടെ നമുക്ക് x 1 ന് തുല്യമാണ് അതിനനുസരിച്ച് ഈ y ൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 3x ന് തുല്യമാണ് ഇവിടെ നമുക്ക് x ഉള്ളത് 4 ന് തുല്യമാണ് അതിനാൽ ഈ y യ്ക്ക് അനുബന്ധം 12 ആയിരിക്കും ഇവിടെ y 3x ആയിരിക്കും അതിനാൽ ഇവയാണ് പോയിന്റുകൾ ഇപ്പോൾ ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഇന്റഗ്രലുകൾ വീണ്ടും എഴുതണം ഒന്നുകിൽ നമുക്ക് ആദ്യം x ന്റെ ദിശയിലോ y യുടെ ദിശയിലോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ആദ്യം y യുടെ ദിശയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം കാരണം അത് എളുപ്പമായിരിക്കും അതിനാൽ y ന്റെ ദിശയിൽ അത് എല്ലായ്പ്പോഴും അതിൽ നിന്ന് ഈ വരിയിലൂടെ പ്രവേശിച്ച് ഈ പരാബോളയിലൂടെ പുറത്തുകടക്കുന്നു അതിനർത്ഥം ഈ y തുടർന്ന് dx അതിനാൽ y 3x ൽ നിന്ന് ഈ പരാബോളയിലേക്ക് പോകുന്നു y ന് തുല്യവും x ന്റെ ലിമിറ്റ് 4 മുതൽ ഈ x വരെ 1 ന് തുല്യവുമാണ് അതിനാൽ ഈ ഇന്റഗ്രൽ ഞങ്ങൾ കണക്കുകൂട്ടേണ്ടതുണ്ട് ഒപ്പം ഇന്റഗ്രാന്റ് ആയിരിക്കും കാരണം ഞങ്ങൾ ഇവിടെ മുഴുവൻ പ്രദേശവും ഉൾക്കൊള്ളുന്നു ഈ ലൈൻ എല്ലായ്പ്പോഴും ഈ ലൈനിലൂടെ പ്രവേശിച്ച് ആ പരാബോളയിൽ നിന്ന് പുറത്തുകടക്കുന്നു ഒപ്പം x നായി ഞങ്ങൾ 4 മുതൽ 1 വരെ എടുത്തിട്ടുണ്ട് അതിനാൽ മൂല്യങ്ങൾ ലഭിക്കുന്നതിന് ലളിതമായ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്

അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഡബിൾ ഇന്റഗ്രലിന്റെ അടിസ്ഥാനത്തിലുള്ള വോള്യമാണ് നമുക്ക് ഇത് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ഇന്റഗ്രലാണ് ഇവിടെയുള്ള കണക്കുകൂട്ടലുകൾക്ക് ശേഷം മൂല്യങ്ങൾ ആയി വരുന്നു ഇത് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയുന്ന ലളിതമായ ഇന്റഗ്രലാണ് അതിനാൽ ഈ ഡബിൾ ഇന്റഗ്രലുകളുടെ പ്രയോഗങ്ങൾ പ്രധാനമായും വിസ്തീർണ്ണത്തിന്റെ കണക്കുകൂട്ടലും വോളിയത്തിന്റെ കണക്കുകൂട്ടലും ഇന്ന് നാം കണ്ടു പിന്നീടുള്ള പ്രഭാഷണങ്ങളിൽ ഉപരിതല വിസ്തീർണ്ണം കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു ആപ്ലിക്കേഷനും ഞങ്ങൾ കാണും ഇപ്പോൾ ഞങ്ങൾ ഫംഗ്ഷന്റെ ഡൊമെയ്നിന്റെ വിസ്തീർണ്ണം മാത്രം കണക്കുകൂട്ടി പിന്നീട് നൽകിയ ഇന്റഗ്രലുകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഉപരിതലത്തിന്റെ ഉപരിതല വിസ്തീർണ്ണം കണക്കാക്കാനും കഴിയും എന്നാൽ ഇത് നേരെയുള്ള ഒരു പ്രയോഗമായിരുന്നു വിസ്തീർണ്ണം കണക്കുകൂട്ടലും ഇന്ന് നമ്മൾ കണ്ട വോള്യത്തിന്റെ കണക്കുകൂട്ടലും ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകളാണ് ഇവ വളരെയധികം നന്ദി